എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സ് എന്ന കോഴ്സിലെ ആദ്യ പ്രഭാഷണമാണിത് രണ്ട് കോർണർ ആനിമേഷനുകൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സ് പഠിക്കേണ്ടത് എന്നതിന് പ്രചോദനം നൽകുന്നു ഡക്റ്റൈൽ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഘടനകളുടെ അമ്പരിപ്പിക്കുന്ന പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടിൽ രീതിയിൽ അവ പരാജയപ്പെടുന്നു മറ്റ് രണ്ട് കോർണർ ആനിമേഷനുകൾ ഫ്രാക്ചർ മെക്കാനിക്സിലെ മോഡലിംഗ് പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമുക്ക് ഒരു വിള്ളൽ ഉണ്ട് ഒപ്പം ഓരോന്നിന്റെയും വിള്ളൽ മുഖങ്ങൾ വ്യത്യസ്തമായി നീങ്ങുന്നു അതിനാൽ നമുക്ക് ഇത് മോഡ് I ആയി ഉണ്ട് ഇത് തുറക്കുന്നു ഇത് സ്ലൈഡുചെയ്യുന്നു ഇതിനെ മോഡ് II എന്ന് വിളിക്കുന്നു ഇത് കീറുന്ന പ്രവർത്തനമാണ് ഇതിനെ മോഡ് III എന്ന് വിളിക്കുന്നു നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വശത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് നമുക്ക് ചരിത്രം നോക്കാം ചരിത്രം വളരെ പ്രധാനമാണ് ഏതൊരു വിഷയവികസനത്തിലും ഇത്തരത്തിലുള്ള ഒരു രീതിശാസ്ത്രത്തിൽ എത്തിച്ചേരാൻ ആളുകളെ പ്രേരിപ്പിച്ചതെന്താണെന്ന് നമ്മൾ നോക്കണം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം നടന്നപ്പോൾ മാത്രമാണ് ഘടനാപരമായ പ്രവർത്തനങ്ങൾക്കായി ലോഹങ്ങളുടെ ഉപയോഗത്തിൽ വളരെയധികം വർദ്ധനവ് ഉണ്ടായതായി നമ്മൾ കാണുന്നു മുമ്പ് ആളുകൾ ലോഹങ്ങളാൽ നിർമ്മിച്ച നിർമ്മാണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ലോഹങ്ങളുടെ സ്ഫോടനാത്മക ഉപയോഗമുണ്ടായിരുന്നു അതിനാൽ നമുക്ക് ഈ ലോഹങ്ങളുടെ സ്ഫോടനാത്മക ഉപയോഗം ഉള്ളപ്പോൾ അവയുടെ ഘടനാപരമായ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ആളുകൾക്ക് മനസിലാക്കാൻ ലളിതമായ പരിശോധനകൾ ആവിഷ്കരിച്ചു കൂടാതെ ഒരു രീതിശാസ്ത്രവും ആവിഷ്കരിച്ചിട്ടുണ്ട് കല എന്താണെന്നും ശാസ്ത്രം എന്താണെന്നും തമ്മിലുള്ള വേർതിരിവ് നമ്മൾ നോക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ ശാസ്ത്രീയ സംഭവവികാസങ്ങളിൽ പലതും ആദ്യം കലയായി ഉപയോഗിച്ചിരുന്നു ഒരു കുതിരയുടെ പ്രസിദ്ധമായ ശില്പം നോക്കിയാൽ രണ്ട് പിൻകാലുകളിൽ നിൽക്കുന്നത് രൂപകൽപ്പന ചെയ്തത് ലിയോനാർഡോ ഡാവിഞ്ചി ആണ് അത് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന ആശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ഇതിന്റെ പിന്നിലെ തത്വങ്ങൾ എന്താണെന്ന് അറിയില്ലായിരുന്നു ആരംഭത്തിൽ ഇത് ഒരു കല പോലെ കൂടുതൽ പരിശീലിച്ചു വാസ്തവത്തിൽ ഘടന എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഒരു ആശയം വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടപ്പോൾ ആളുകൾ പരിശോധനകൾ നടത്തുകയും ഒരു ഗണിതശാസ്ത്ര ചട്ടക്കൂട് രൂപപ്പെടുത്തുകയും അവരുടെ ധാരണകളെ സമവാക്യങ്ങളായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്തു ഒരിക്കൽ നമ്മൾക്കത് സമവാക്യങ്ങളായി ലഭിച്ചാൽ നമുക്ക് നിരവധി ആളുകളെ പരിശീലിപ്പിക്കാൻ കഴിയും അപ്പോൾ അത് സയൻസായി മാറുന്നു അതിനാൽ പ്രാരംഭ ഘട്ടത്തിൽ ആളുകൾ ഇത് കലയായി ഉപയോഗിച്ചതായി നമ്മൾ കണ്ടെത്തുന്നു പിന്നീട് അത് ഒരു ശാസ്ത്രമായി വികസിച്ചു ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോഹങ്ങളാൽ നിർമ്മിച്ച ഘടനകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവയ്ക്ക് ദുരന്ത പരാജയങ്ങൾ നേരിടേണ്ടിവന്നു അപകടങ്ങൾ ഉണ്ടായിരുന്നു അവ നന്നായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരുന്നു പക്ഷേ അപകടങ്ങളുണ്ടായി അതിനാൽ നമ്മൾ എന്തുചെയ്യും ഇവയിൽ ചിലത് എങ്ങനെ തടയാമെന്ന് നമ്മൾ തിരികെ പോയി കണ്ടെത്തേണ്ടതുണ്ട് പ്രഷർ വെസൽ വളരെ പ്രധാനമാണെന്ന് നമ്മൾക്കറിയാം ആധുനിക ശാസ്ത്രത്തിലെ ആദ്യകാല വികാസങ്ങളിലൊന്ന് ലോക്കോമോട്ടീവുകൾ വികസിപ്പിച്ചെടുത്തു ലോക്കോമോട്ടീവുകൾക്ക് ബോയിലറുകളും ഉണ്ടായിരുന്നു ബോയിലറുകൾ അടിസ്ഥാനപരമായി പ്രഷർ വെസൽ ആയിരുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പലതിലും നമ്മൾ പ്രഷർ വെസൽ കാണുന്നു നമുക്ക് ഇൻഡെയ്ൻ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അത് ഒരു പ്രഷർ വെസൽ ആണ് നമ്മൾ അടുക്കളയിലേക്ക് പോയാൽ നമുക്ക് കുക്കർ ഉണ്ട് അതാണ് ഒരു പ്രഷർ വെസൽ മറുവശത്ത് നമ്മൾ വിമാനങ്ങളിൽ പോയാൽ അവ വീണ്ടും പ്രഷർ വെസൽ ആണ് അതിനാൽ നന്നായി മനസിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രഷർ വെസൽ പക്ഷേ നമുക്ക് ബോയിലറുകളുടെ ആകസ്മികമായ അപകടങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഈ അപകടങ്ങൾ തടയാൻ അക്കാലത്തെ അറിവ് പര്യാപ്തമായിരുന്നില്ല അതിനാൽ എന്തുചെയ്യണമെന്ന് നോക്കാൻ അവർ തീരുമാനിക്കുന്നു കൂടാതെ ഈ അപകടങ്ങളിൽ ചിലത് മോശം രൂപകൽപ്പന മൂലമാണെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു ഇത് പിന്നീട് മെച്ചപ്പെട്ട മെറ്റീരിയലുകളുടെ തിരഞ്ഞെടുപ്പും മെച്ചപ്പെട്ട ഉൽപാദന രീതികളും ഉപയോഗിച്ച് മെച്ചപ്പെടുത്തി ഇത് വളരെ പ്രധാനമാണ് നമ്മൾ ഏതെങ്കിലും ശാസ്ത്രീയ വികസനം നോക്കുകയാണെങ്കിൽ ഭൌതികവികസനത്തിൽ ഒരു സമാന്തര വികസനം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ഘടനാപരമായ പെരുമാറ്റം ആളുകൾ മനസിലാക്കുമ്പോൾ ഉൽപാദന രീതികൾക്കും തുല്യമായ പങ്കുണ്ടെന്ന് അവർക്ക് തോന്നി ഉൽപാദന രീതി വിശദീകരിക്കുന്ന ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാകാൻ കഴിയില്ല നമുക്ക് സംയോജിത ഡിസൈൻ ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഇപ്പോൾ ആധുനിക ഡിസൈൻ ഏത് ഡിസൈൻ സാഹചര്യത്തെയും നോക്കുന്നത് നമുക്ക് സംയോജിത നിർമ്മാണവും രൂപകൽപ്പനയും ഉണ്ട് ആളുകൾ വ്യക്തിഗതമായി ഡിസൈനുകൾ ചെയ്യുന്നില്ല

അതിനാൽ ഇത് മുമ്പത്തെ എഞ്ചിനീയർമാരും അറിഞ്ഞിരുന്നു അവർ ആ ദുരന്ത അപകടങ്ങൾക്ക് കാരണമെന്താണെന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു അവർ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഡിസൈൻ മോശമായതിനാലാണ് എന്ന് മനസ്സിലായി അവർക്ക് അത് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു മെറ്റീരിയലിന്റെ ശക്തി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അവർ കണ്ടെത്തിയപ്പോൾ അവർ മെറ്റീരിയലുകൾ അലോയ് ചെയ്യുന്നതിനായി പോയി പുതിയ മെറ്റീരിയലുകൾ വികസിപ്പിക്കുകയും ഉൽപാദന രീതികൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു ഇതിനെല്ലാം മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതിനാൽ നമുക്ക് എല്ലാം മനസ്സിലായി എന്ന ഒരു ഘട്ടത്തിലെത്തുന്നു അത് ഒരു ദോഷവും ചെയ്യില്ല പക്ഷേ അങ്ങനെയായിരുന്നില്ല അതിനാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകസ്മികമായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംഭവിച്ചു കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഘടന എന്താണെന്നും യഥാർത്ഥ പ്രവർത്തന അവസ്ഥയിൽ അവ എങ്ങനെ പെരുമാറുമെന്നും മനസ്സിലാക്കി എന്നാൽ അതിൽ ഒരു വിടവ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി രൂപകൽപ്പന മെച്ചപ്പെടുത്തുകയോ മെറ്റീരിയൽ മാറ്റുകയോ പോലുള്ള നിങ്ങളുടെ ലളിതമായ പരിഹാരം പര്യാപ്തമല്ല അതിനാൽ യഥാർത്ഥ പ്രവർത്തന ലോഡുകൾക്ക് കീഴിൽ ഭൌതിക സ്വഭാവം മനസിലാക്കുന്നതിൽ അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് കൈകാര്യം ചെയ്യണം വേറെ വഴിയില്ല ഈ പരാജയങ്ങളെക്കുറിച്ചുള്ള ആത്മപരിശോധനയും ലോകമെമ്പാടുമുള്ള നിരവധി എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളും ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികാസത്തിലേക്ക് നയിച്ചു വാസ്തവത്തിൽ ഈ അതിശയകരമായ പരാജയങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്താൻ നമ്മൾ പോകുന്നു അവ ഓരോന്നായി മനസിലാക്കുക മനസിലാക്കുന്നതിന്റെ ഏത് വശമാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് കണ്ടെത്തുക കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് നോക്കും ഇപ്പോൾ വളരെ ഹ്രസ്വമായ രീതിയിൽ മൊത്തത്തിലുള്ള ഒരു കോഴ്സ് രൂപരേഖ നമ്മൾക്ക് നോക്കാം ഫ്രാക്ചർ മെക്കാനിക്സിൽ അടിസ്ഥാനപരമായി എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കൂ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ് അല്ലെങ്കിൽ അഡ്വാൻസ് മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്നിവ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോഴ്സുകളിലെല്ലാം മെറ്റീരിയൽ ഏകതാനമാണ് കൂടാതെ ഇത് ഒരു ഇലാസ്റ്റിക് തുടർച്ച കൂടിയാണ് അന്തർലീനമായ കുറവുകൾ നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല പ്രവർത്തനത്തിലെ അന്തർലീനമായ ന്യൂനതകൾ വർദ്ധിക്കുകയും അവ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് ആകസ്മികമായ ചില പരാജയങ്ങൾ കാണിച്ചു തന്നു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ അടിസ്ഥാന വശം അവയുടെ പ്രകടനത്തെയും ജീവിതത്തെയും ബാധിക്കുന്ന ഘടനകളിലെ അന്തർലീനമായ കുറവുകളുടെ പങ്ക് ഇത് തിരിച്ചറിയുന്നു അതിനാൽ നമ്മൾ ഇത് മനസിലാക്കേണ്ടതുണ്ട് കൂടാതെ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ സാങ്കേതിക പ്രയോഗം എന്താണ് കുറവുകളുടെ പങ്ക് മനസിലാക്കുന്നത് ഘടന രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നില്ല ആ അറിവ് നമ്മൾ അർത്ഥവത്തായ രീതിയിൽ ഉപയോഗിക്കേണ്ടിവരും അതിനാൽ നിങ്ങളുടെ പക്കലുള്ളത് ഡാമേജ് ടോളറന്റ് ഡിസൈൻ സമീപനത്തിന്റെ ആശയമാണ് അന്തർലീനമായ കുറവുകളുണ്ടെന്നും അന്തർലീനമായ കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ സഹിക്കും ഡിസൈൻ രീതി എങ്ങനെ ഉണ്ടാക്കാമെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് കേടുപാടുകൾ സഹിക്കുന്നതാണ് എനിക്ക് കേടുപാടുകൾ സഹിക്കേണ്ടിവരുമ്പോൾ ഞാൻ അത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പ്രവർത്തനത്തിൽ അന്തർലീനമായ ഒരു ന്യൂനത എങ്ങനെ വളരുന്നുവെന്നും അത് എപ്പോൾ നിർണായകമാകുമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ വളരെയധികം ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് നമുക്ക് മികച്ച ധാരണ ഉണ്ടായിരിക്കണം പ്രവർത്തനത്തിൽ വിള്ളൽ എങ്ങനെ വളരും എത്ര തവണ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പോയി പരിശോധിക്കണം ഡാമേജ് ടോളറന്റ് ഡിസൈൻ സമീപനം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റ ശേഖരിക്കണം വ്യക്തമായും ഇതിന് വിള്ളൽ വളർച്ചാ സംവിധാനങ്ങളെയും ഭൌതിക സ്വഭാവത്തെയും കുറിച്ചും ഒരു ധാരണ ആവശ്യമാണ് വളരെയധികം വിള്ളൽ വളർച്ചാ സംവിധാനങ്ങളുണ്ട് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ മേഖലയാണ് നമുക്ക് സ്ട്രെസ് അനാലിസിസും ഡിസൈനും ആവശ്യമാണ് നമുക്ക് മെറ്റീരിയൽ സയൻസിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ഒപ്പം വിള്ളൽ വളർച്ച നിരീക്ഷിക്കുന്നതിനും ആനുകാലിക പരിശോധനയ്ക്കും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഈ മൂന്ന് മേഖലകളുടെ സംഗമം ഫ്രാക്ചർ മെക്കാനിക്സ് എന്താണെന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കുന്നു വാസ്തവത്തിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വിശദമായി പരിശോധിക്കും സ്ട്രെസ് അനാലിസിസിലും ഡിസൈനിലും നമ്മൾ എന്ത് വശങ്ങൾ ചെയ്യും മെറ്റീരിയൽ സയൻസിൽ നമ്മൾ എന്ത് വശങ്ങൾ ചെയ്യും നോൺ ഡിസ്ട്രക്റ്റീവ് എന്നിവയിൽ നമ്മൾ എന്ത് വശങ്ങൾ നോക്കുന്നു പരിശോധിക്കുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം നമ്മൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു നട്ട് ഷെല്ലിൽ ഫ്രാക്ചർ മെക്കാനിക്സ് എന്താണ് എന്നതിനെക്കുറിച്ച് അറിവ് നൽകുന്നു അതിനാൽ നമുക്ക് മെറ്റീരിയൽ സയൻസ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് സ്ട്രെസ് അനാലിസിസ് ഡിസൈൻ എന്നിവയുടെ സംയോജനം ആവശ്യമാണ് അധ്യായങ്ങളുടെ പട്ടികയും കോഴ്സിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ഇപ്പോൾ കോഴ്സ് എന്തായിരിക്കുമെന്നതിന്റെ ഒരു ഹ്രസ്വ രൂപരേഖ നമുക്ക് ലഭിക്കും അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ അവലോകനത്തെക്കുറിച്ചുള്ള ആറ് പ്രഭാഷണങ്ങളുടെ ആദ്യ സെറ്റ് എനിക്ക് ഉണ്ടാകും ഇതിന് ശേഷം ക്രാക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ വിള്ളൽ വളർച്ച ഫ്രാക്ചർ മെക്കാനിസം എന്നിവ ഉണ്ടാകും ഈ രൂപരേഖയിൽ നമുക്ക് ചില പദങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഫ്രാക്ചർ മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എന്താണെന്ന് നമ്മൾ തീർച്ചയായും കാണും അത് ഈ രൂപരേഖയിൽ നിന്ന് നമുക്ക് നേടാനാകും അതിനാൽ ഇത് നമുക്ക് ഒരു ആശയം നൽകും കോഴ്സ് ഘടന എന്തായിരിക്കും ഈ പ്രഭാഷണ സമയം ഏകദേശമാണ് അതിൽ കൂടുതലോ കുറവോ ആകാം ഇതിനെ തുടർന്ന് എനർജി റിലീസ് റേറ്റ് ഉണ്ടാകും ആറോളം പ്രഭാഷണങ്ങളിലായിരിക്കും അത് തുടർന്ന് ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിന്റെ അവലോകനം നമുക്ക് ലഭിക്കും ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിന് നമുക്ക് ഈ പശ്ചാത്തലം ആവശ്യമുള്ളതിനാൽ അത് രണ്ട് പ്രഭാഷണങ്ങൾക്കാണ് അതിനാൽ അത് ആറോളം പ്രഭാഷണങ്ങൾ ആയിരിക്കും എന്നിട്ട് ഫ്രാക്ചർ മെക്കാനിക്സിൽ നമുക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്ന ഒരു പാരാമീറ്റർ ഉണ്ട് ചുരുക്കത്തിൽ SIF ഇത് വിവിധ ജ്യോമട്രിക്കും ലോഡിംഗിനുമായി നമ്മൾ നോക്കും ഇത് മൂന്ന് പ്രഭാഷണങ്ങൾമാത്രമുള്ളതാണ് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ അധ്യായങ്ങൾക്കെല്ലാം നമുക്ക് ആനിമേറ്റുചെയ്ത സ്ലൈഡുകളുടെ പിന്തുണ ലഭിക്കും ആശയങ്ങൾ വളരെ സൌകര്യപ്രദമായ രീതിയിൽ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് ക്രാക്ക് ഗ്രോത്ത് ഫ്രാക്ചർ മെക്കാനിസങ്ങളിൽ ബ്രിട്ടിൽ ഫ്രാക്ചറിനെക്കുറിച്ചും ഡക്റ്റൈൽ ഫ്രാക്ചറിനെക്കുറിച്ചും സംസാരിക്കും കൂടാതെ നിരവധി ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസങ്ങളും പരിശോധിക്കും ചുരുക്കത്തിൽ തളർച്ചയുടെ പ്രക്രിയയിൽ വിള്ളൽ വളരുമ്പോൾ എന്തുസംഭവിക്കുന്നുവെന്ന് ഈ ആനിമേഷൻ കാണിക്കുന്നു ചില അദ്ധ്യായങ്ങളിൽ നമുക്ക് വിവരങ്ങൾക്കായി ഒരു പ്രചോദനം നൽകുന്ന തരം ആനിമേഷനുകൾ കാണിക്കാൻ ഞാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അത് നൽകും നമ്മൾ ഈ കോഴ്സിൽ പഠിക്കും ഫ്രാക്ചർ മെക്കാനിക്സിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എനർജി റിലീസ് റേറ്റ് ക്രാക്ക് പ്രചരിപ്പിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് വിള്ളൽ അടയ്ക്കാൻ ആവശ്യമായ ഊർജ്ജം നമ്മൾ കണ്ടെത്തും അതിന്റെ പിന്നിലുള്ള ഗണിതശാസ്ത്രത്തെ നമ്മൾ വികസിപ്പിക്കും നമ്മൾ സാഹചര്യത്തെ അനുയോജ്യമാക്കും വിള്ളൽ വളരാൻ ആവശ്യമായ ഊർജ്ജം എന്താണെന്ന് ഇനി മുതൽ നമ്മൾ കണ്ടെത്തും കൂടാതെ സന്ദർഭത്തിൽ നിരന്തരമായ ലോഡിലെ ഊർജ്ജ ലഭ്യത എന്താണെന്നും നിരന്തരമായ ഡിസ്പ്ലേസ്മെൻറ് എന്താണെന്നും നമ്മൾ കാണും എനർജി റിലീസ് റേറ്റിനെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും ഈ ആശയങ്ങൾ എനർജി റിലീസ് റേറ്റ് എന്ന വിഷയത്തിൽ വരും തുടർന്ന് ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവയിലേക്ക് നമ്മൾ നീങ്ങുന്നു നമ്മൾ ഇത് ശ്രദ്ധാപൂർവ്വം കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ഗിയർ പല്ലുകളുണ്ടെന്നും ടെൻസൈൽ റൂട്ട് ഫില്ലറ്റിൽ നമുക്ക് ഒരു വിള്ളൽ ഉണ്ടെന്നും നമ്മൾ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഞാനിത് മാറ്റുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പാരാമീറ്ററുകളുടെ എണ്ണത്തിന്റെ പ്രവർത്തനമാണ് കൂടാതെ ഇത് ആറ് പാരാമീറ്ററുകൾക്കുള്ളതാണ് ഇത് ഇപ്പോൾ 2 3 4 5 6 എന്നീ പരാമീറ്ററുകളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു ഈ ശ്രേണിയിൽ എനിക്ക് കൂടുതൽ പദങ്ങൾ ഉള്ളപ്പോൾ ഈ ഫ്രിഞ്ച് പാറ്റേണിന്റെ ജോമട്രി സവിശേഷതകൾ നന്നായി പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ പ്രധാനമാണ് ഈ നിമിഷം നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് വരുന്നു ഈ ഉയർന്ന ഓർഡർ നിബന്ധനകളിലും ഫ്രാക്ചർ പാരാമീറ്ററുകളുടെ പരീക്ഷണാത്മക വിലയിരുത്തലിലെ യൂട്ടിലിറ്റികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരീക്ഷണാത്മകവാദികൾ മാത്രമാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത് നമുക്ക് ഫോട്ടോലാസ്റ്റിറ്റിയിൽ നിന്നുള്ള ഐസോക്രോമാറ്റിക്സ് ഉണ്ട് ഹോളോഗ്രാഫിയിൽ നിന്നുള്ള ഐസോപാച്ചിക്സ് ഉണ്ട് അവ പ്രധാനമായും സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ന്റെ രൂപരേഖകളാണ് കൂടാതെ നമുക്ക് u ഡിസ്പ്ലേസ്മെന്റ് ഐസോതെറ്റിക്സ് ഉണ്ട് ഇത് മൊയറിൽ നിന്നും v ഡിസ്പ്ലേസ്മെന്റ് ഐസോതെറ്റിക്സിൽ നിന്നുമാണ് നമുക്ക് മറ്റൊരു പ്രധാന ആശയം കൂടി ഉണ്ട് ഈ വികാസത്തിന്റെ മൊത്തത്തിൽ നമ്മൾ ക്രാക്ക് ടിപ്പ് ഉത്ഭവമായി എടുക്കും കൂടാതെ x അക്ഷം ക്രാക്ക് ആക്സിസിനൊപ്പവും y അക്ഷം ലംബമാണ് R തീറ്റ എന്നിവ ഉപയോഗിച്ച് ഒരു പോയിന്റ് നമ്മൾ തിരിച്ചറിയും അങ്ങനെ നമുക്ക് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ലഭിക്കും ഒരു പരീക്ഷണാത്മകനെന്ന നിലയിൽ ഈ അധ്യായത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് അനന്തമായ സീരീസ് പരിഹാരം നൽകും അടുത്ത അധ്യായം ക്രാക്ക് ടിപ്പിലെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻന്റെ മോഡലിംഗ് ആയിരിക്കും ഇത് വളരെ പ്രധാനമാണ് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഒരു പുതിയ പരിശോധനയുണ്ട് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നു ക്രാക്ക് ഓർഗനൈസേഷനും ലൈഫ് എസ്റ്റിമേഷനും ഇതിന് ശേഷമാണ് വിള്ളൽ വളർച്ച നിരീക്ഷിക്കുന്നതിൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഉപയോഗത്തെ ഇത് ശരിക്കും വെളിപ്പെടുത്തുന്നു അടുത്തതായി നമുക്ക് J ഇന്റഗ്രലിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാകും ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് എലാസ്റ്റോപ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് അല്ലെങ്കിൽ നോൺ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ J ഇന്റഗ്രൽ ഒരു ഉപയോഗപ്രദമായ ആശയമാണ് ഇതിന് ശേഷം മിക്സഡ് മോഡ് ഫ്രാക്ചർ ഉണ്ടാകും ഒടുവിൽ ക്രാക്ക് അറസ്റ്റ് റിപ്പയർ രീതികൾ എന്നിവയെക്കുറിച്ചും ഒരു ഹ്രസ്വ ചർച്ച നടത്തും

തിരഞ്ഞെടുത്ത അദ്ധ്യായങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എങ്ങനെയുള്ള ആശയങ്ങൾ പഠിക്കും എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം ക്രാക്ക് ടിപ്പിലെ പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി ശ്രദ്ധ ആകർഷിച്ചു അതിന് വ്യത്യസ്ത മോഡലുകളുണ്ട് കൂടാതെ മാതൃകയുടെ കനത്തിൽ പ്ലാസ്റ്റിക് സോൺ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് അറിയാനും നമ്മൾ താല്പര്യപ്പെടുന്നു ഇത് എങ്ങനെയാണ് ഉപരിതലത്തിൽ കാണപ്പെടുന്നത് അത് ഉൾവശത്ത് എങ്ങനെ കാണുന്നു എന്ന് അറിയാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് വിള്ളലിന്റെ പ്രചാരണത്തെ എങ്ങനെ ബാധിക്കുന്നു പ്രാരംഭ ഘട്ടത്തിൽ ഇത് എങ്ങനെ പ്രചരിക്കുന്നു പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഇത് എങ്ങനെ പ്രചരിക്കുന്നു എനിക്ക് ഒരു വിള്ളൽ ഉണ്ടെന്നും എനിക്ക് ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ടെന്നും കരുതുക ഞാൻ അതിനെ എങ്ങനെ ഗണിതശാസ്ത്രപരമായി മാതൃകയാക്കും ഈ പ്ലാസ്റ്റിക് സോൺ കണക്കിലെടുക്കുന്നതിന് ലളിതമായ രീതിയിൽ ചില സമീപനങ്ങളുണ്ട്

ക്രാക്ക് ഓർഗനൈസേഷനും ലൈഫ് എസ്റ്റിമേഷനും എന്ന അധ്യായം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ യഥാർത്ഥ ഉപയോഗമാണ് നമ്മൾ വിശദമായ പരിശോധനകൾ നടത്തണം അവിടെ നമ്മൾ ക്രാക്ക് വളർച്ച കർവ്വുകൾ വികസിപ്പിക്കുന്നു ഒരു ചാക്രിക ലോഡിംഗ് പ്രയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിള്ളൽ ൻറെ വളർച്ച നമ്മൾ നിരീക്ഷിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ ഒരു സിഗ്മോയ്ഡൽ കർവ് നേടാൻ ശ്രമിക്കുന്നു അത് ക്രാക്ക് ഓർഗനൈസേഷൻ മുതൽ ഫ്രാക്ചർ വരെ കാണിക്കുന്നു ഒരു പ്രത്യേക ഘട്ടമുണ്ട് ഇവിടെ ഇത് ലീനിയർ ആണ് വരകളുടെ രൂപവത്കരണത്തിലാണ് ഈ സോണിന്റെ ആധിപത്യം ആ വരകൾ എന്താണെന്ന് നമ്മൾ നോക്കാം ഇവ ഇവിടെ കാണിച്ചിരിക്കുന്നു സെഗ്മെന്റിനെ നിയന്ത്രിക്കുന്ന പ്രശസ്തമായ പാരീസ് നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ക്രാക്ക് ഓർഗനൈസേഷന്റെ പങ്ക് എന്താണ് വിള്ളൽ ആരംഭിക്കാൻ എത്ര സമയമെടുക്കുന്നു വളർച്ചയ്ക്ക് എത്ര സമയമെടുക്കും എന്നൊക്കെ ഇത് കാണിക്കുന്നു കൂടുതൽ ലോഡ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈ ഗ്രാഫ് കാണിക്കുന്നു

ഒടുവിൽ നമുക്ക് ഒരു ക്രാക്ക് അറസ്റ്റിനുള്ള രീതിശാസ്ത്രവും അതുപോലെ തന്നെ എങ്ങനെ നന്നാക്കാമെന്നതും ആവശ്യമാണ് കൂടാതെ ഇത് ഒരു പാച്ച് കാണിക്കുന്നു എനിക്ക് ഒരു വിള്ളൽ ഉണ്ട് പാച്ച് അതിന് ലംബമായി ഇടുന്നു അതിന് ഒരു കാരണമുണ്ട് കൂടാതെ ഇത് മറ്റൊരു ആശയം കാണിക്കുന്നു അനുയോജ്യമായ രീതിശാസ്ത്രത്തിലൂടെ നമുക്ക് വിള്ളൽ പുനരാരംഭിക്കാൻ കാലതാമസമുണ്ടാകും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ദ്വാരം കാരണം വിള്ളലിന്റെ പുനരാരംഭം വൈകുന്നു ഈ കോഴ്സിലെ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വിവിധ ആശയങ്ങൾ പുറത്തെടുക്കുന്നതിന് ഫോട്ടോലാസ്റ്റിറ്റി ഉപയോഗം ഞാൻ വ്യാപകമായി ഉപയോഗിക്കും

അതിനാൽ മൊത്തം പ്രഭാഷണങ്ങൾ നാൽപതോളം വരും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും ഇത് ക്ലാസിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫ്രാക്ചർ മെക്കാനിക്സ് എന്താണെന്നതിന്റെ ഒരു ഹ്രസ്വ രൂപരേഖ ഒരു പൂർണ്ണ കോഴ്സായി നമ്മൾ കണ്ടു നമ്മൾ പൂർണ്ണ കോഴ്സിലേക്ക് പോകുന്നതിനുമുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവലോകനം ചെയ്യാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവലോകനം ചെയ്തു ആ അറിവിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക നേരത്തെ നമ്മുടെ ധാരണയിലെ ബുദ്ധിമുട്ട് എന്തായിരുന്നു നമ്മൾ കണ്ടെത്തേണ്ടത് ഇതാണ് നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന ഒരു കോഴ്സ് ചെയ്തു അത് മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നു നമ്മൾ അറിവ് നേടി അറിവ് ഉപയോഗപ്രദമാണ് പക്ഷേ അത് പരിമിതമാണ് കൂടാതെ നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമുക്ക് ഒരു പ്രശസ്തമായ ടെൻഷൻ പരിശോധനയുണ്ട് കൂടാതെ നമ്മൾ ഈ ആനിമേഷൻ കാണുക കോൽ വലിക്കുന്നതും ഗ്രാഫും തമ്മിൽ സമന്വയം ഉണ്ട് ടെൻഷൻ ടെസ്റ്റ്ബെൻഡിങ് ടോർഷൻ എന്നിവയുടെ അവലോകനം നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് തുടക്കത്തിൽ ഒരു ലീനിയർ മേഖലയുണ്ട് അതിനുശേഷം ഒരു യീൽഡ് മേഖലയുണ്ട് അതിനുശേഷം നമുക്ക് ഒരു വർക്ക് ഹാർഡ്നിങ് ഉണ്ട് തുടർന്ന് ആത്യന്തിക ടെൻസൈൽ ശക്തിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു തുടർന്ന് നെക്കിങ് നടക്കുന്നു ഒടുവിൽ മെറ്റീരിയൽ വേർതിരിക്കലും നടക്കുന്നു ഇത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലാണ് നമ്മൾ ശരിക്കും പോയാൽ നമുക്ക് കോഡുകൾ നിലവിലുണ്ട് ഏത് തരം വസ്തുക്കൾ ഉപയോഗിക്കേണ്ടിവരും അത് എങ്ങനെ പിടിക്കണം വിശദമായ കോഡുകൾ നിലനിൽക്കുന്ന ഉപരിതല ഫിനിഷ് എന്തായിരിക്കണം

നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കോഡ് പിന്തുടർന്ന് ഈ പരിശോധന നടത്താൻ പോകുന്നു എന്നതാണ് പരിശോധനയുടെ അവസാനം നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലഭിക്കും കൂടാതെ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് നമുക്ക് ചുവന്ന ഷേഡുള്ള ഭാഗമുണ്ട് ഇതാണ് ഇലാസ്റ്റിക് മേഖല നമുക്ക് ഇവിടെ ഉള്ളത് പ്ലാസ്റ്റിക് മേഖലയാണ് ഇലാസ്റ്റിക് പ്രദേശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്ലാസ്റ്റിക് മേഖല വളരെ വലുതാണ് മെക്കാനിക്കൽ എയ്റോസ്പേസ് എഞ്ചിനീയർമാർ എന്ന നിലയിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ ഘടനകളെ രൂപകൽപ്പന ചെയ്യുന്നു അതായത് ഘടകങ്ങൾ ഇലാസ്റ്റിക് മേഖലയിൽ തന്നെ തുടരും ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത് മെറ്റീരിയൽ വേർതിരിക്കലിന് മുമ്പ് നമുക്ക് വളരെ നീണ്ട സുരക്ഷിത മേഖലയുണ്ട് അവിടെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്ക് രൂപഭേദം വരുത്തുകയും നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഇത് വേർപെടുത്തുന്നതിനുമുമ്പ് ഘടനാപരമായ ആപ്ലിക്കേഷനായി ഞാൻ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പക്ഷേ ഇത് സംഭവിച്ചിട്ടില്ല ഞാൻ നേരത്തെ കാണിച്ച ആകസ്മികമായ പരാജയങ്ങളുടെ കാര്യത്തിൽ ഡക്റ്റൈൽ വസ്തുക്കളാൽ നിർമ്മിച്ച ഘടനകൾ പെട്ടെന്ന് ഗ്ലാസ് പോലെ തകർന്നതായി നമ്മൾ കണ്ടെത്തി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പരമ്പരാഗത വിശകലനത്തിൽ മാതൃകയാക്കാത്ത ഏത് വശമായിരുന്നു അത് കൂടാതെ ഈ ആനിമേഷനിൽ നമുക്ക് ഒരു വശം കൂടി നോക്കാം ഇതൊരു നിയന്ത്രിത ആനിമേഷനാണ് നമ്മൾ ഇത് ചെയ്തു ഈ ഫ്രാക്ചർ മാതൃകയുടെ മധ്യഭാഗത്ത് സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നു വെറുതെ പുറകിലേക്ക് പോയി ചിന്തിക്കുക നിങ്ങളുടെ ബിരുദ കോഴ്സിൽ നിങ്ങൾ നടത്തിയ ടെൻഷൻ പരീക്ഷണം ഓർമ്മിക്കുമ്പോൾ അത് ഇങ്ങനെയാണോ വെറുതെ പുറകിലേക്ക് പോയി കേന്ദ്രത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന് ചിന്തിക്കുക ഒരു കേന്ദ്രമെന്ന നിലയിൽ ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കാണിച്ചു അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇത് വളരെ ലളിതമായ ഒരു പരീക്ഷണമാണ് കൂടാതെ ഒരു ഐസോട്രോപിക് മെറ്റീരിയൽ സ്വഭാവത്തെ ചിത്രീകരിക്കാൻ ഉപയോഗപ്രദവുമാണ് കുറച്ച് സമയത്തിന് ശേഷം അത് എന്താണെന്ന് നമ്മൾ കാണും

തുടർന്ന് നമ്മൾ വളയുന്നതിലേക്ക് ബെൻഡിങ് നീങ്ങുന്നു ആദ്യ ലെവൽ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ് അതിനാൽ നമ്മൾ ഒരു ബീം വളയുന്നതിലേക്ക് പോകുക നമ്മൾ നാല് പോയിന്റ് വളയുന്ന ഉദാഹരണം എടുക്കുന്നു കൂടാതെ നമ്മൾ ഫ്ലെക്സർ ഫോർമുല വികസിപ്പിച്ചെടുക്കുന്നു ഒപ്പം വളയുന്നതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ് ക്രോസ് സെക്ഷൻലൂടെ ലീനിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ക്രോസ് സെക്ഷന്റെ ആഴത്തിലൂടെ ഇത് ലീനിയർ ആണ് നമുക്ക് മുകളിലുള്ള ഫൈബറിൽ കംപ്രഷനും ചുവടെയുള്ള ഫൈബറിലെ ടെൻഷനും ഉണ്ട് കൂടാതെ ലോഡ് പങ്കിടലിന് ആന്തരിക കോർ സംഭാവന നൽകില്ല അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമാണ് നമുക്കറിയാം നമ്മൾ വളരെ ഉപയോഗപ്രദമായ അറിവ് പഠിച്ചു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കോഴ്സ് നമ്മൾ പഠിച്ചത് പാഴാകില്ല ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേടിയ അറിവ് പരിമിതമാണ് ആ അറിവ് ഉപയോഗിച്ച് നമുക്ക് ചിലതരം പ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ യഥാർത്ഥ പ്രവർത്തന അവസ്ഥയിൽ നമ്മൾ നേരിടുന്ന തരത്തിലുള്ള പരാജയങ്ങൾ പരിഹരിക്കുന്നതിന് ആ അറിവ് മാത്രം പര്യാപ്തമല്ല നമ്മൾ എന്താണ് നേടുന്നത് വളയുന്നതിനെക്കുറിച്ചുള്ള ധാരണ കാരണം റെയിലുകളുടെ ക്രോസ് സെക്ഷന്റെ കാര്യക്ഷമമായ രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് കഴിയും വളയുന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരു ചതുരശ്ര ഭാഗം റെയിൽ ആയി എടുക്കുമായിരുന്നു റെയിലുകൾക്കായി നമ്മൾ ഒരു I വിഭാഗം എടുക്കുമായിരുന്നില്ല ഇതാണ് I വിഭാഗം ഇതൊരു ഫോട്ടോലാസ്റ്റിക് മോഡലാണ് റെയിലുകൾക്കായി നമ്മൾ ഇതുപോലുള്ള ഒരു വിഭാഗം എടുക്കുമായിരുന്നില്ല അതിനാൽ വളയുന്നതിനെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായും സഹായിച്ചു നമുക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ റെയിൽവേ ലൈൻ ഉണ്ട് അതിനാൽ നമ്മൾ മെറ്റീരിയൽ വളരെയധികം സംരക്ഷിക്കാനായി അതിനാൽസ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുകളുടെ പഠനത്തിലൂടെ നേടിയ അറിവ് ഉപയോഗപ്രദമായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് ആവർത്തിച്ചുള്ള ലോഡിംഗും അന്തർലീനമായ കുറവുകളും കാരണം റെയിലുകൾ പ്രവർത്തനത്തിൽ ഒടിഞ്ഞു അതിനാൽ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്

അടുത്തത് ഒരു ഫസ്റ്റ് ലെവൽ കോഴ്സിൽ നമ്മൾ പഠിച്ചത് ടോർഷന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നതാണ് അതിനാൽ നമ്മൾ ഒരു ഷാഫ്റ്റ് വളച്ചൊടിക്കാൻ പോകുന്നു നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷൻ എടുക്കുന്നു ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനാൽ നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷൻ എടുക്കുന്നു നമുക്ക് പ്ലെയിൻ വിഭാഗം എടുക്കാം ലോഡുചെയ്യുന്നതിന് മുമ്പും ശേഷവും പ്ലെയിൻ ആയി തുടരുക കൂടാതെ ഫ്ലെക്സർ ഫോർമുലയ്ക്ക് സമാനമായി നമ്മൾ ടോർഷൻ ഫോർമുല വികസിപ്പിക്കുന്നു ഇത് ഷിയർ സ്ട്രെസ് ക്രോസ് സെക്ഷനിൽ ലീനിയർ ആയി വ്യത്യാസപ്പെടുന്നുവെന്ന് കാണിക്കുന്നു ഇത് അതിർത്തിയിൽ പരമാവധി മൂല്യവും മധ്യഭാഗത്ത് പൂജ്യവും ആണ് ടെൻഷൻ പരിശോധനയിൽ നിന്ന് നമ്മൾക്ക് എന്താണ് ലഭിച്ചത് ഒരു ഐസോട്രോപിക് മെറ്റീരിയലിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കണ്ടെത്താനാകുമെന്ന് ഞാൻ പറഞ്ഞു കൂടാതെ സോളിഡ് മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ നമ്മൾ ശരിക്കും ഓർക്കുന്നുവെങ്കിൽ ഐസോട്രോപിക് മെറ്റീരിയലിന്റെ സ്വഭാവത്തിന് നമുക്ക് രണ്ട് ഇലാസ്റ്റിക് കോൺടെസ്റ്റ് ആവശ്യമാണ് ഒരു ടെൻഷൻ പരിശോധനയിൽ നിന്ന് എനിക്ക് ഇവ രണ്ടും നേടാനാകും എനിക്ക് യങ്ങിസ് മോഡുലസ് നേടാൻ കഴിയും എനിക്ക് ഉചിതമായ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പോയിസൺ അനുപാതവും നേടാനാകും അതിനാൽ വളരെ ശ്രദ്ധാപൂർവ്വം ഒരു മെറ്റീരിയൽ ടെസ്റ്റ് നടത്തിക്കൊണ്ട് ലളിതമായ ഡിസൈനുകൾ ചെയ്യുന്നതിന് നമുക്ക് ലോഹത്തിന്റെ സ്വഭാവം കാണിക്കാൻ കഴിഞ്ഞു വളയുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വളയുന്നതുമൂലം ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ് ബീമിന്റെ ആഴത്തിന് ലീനിയർ ആയി വ്യത്യാസപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാകുമായിരുന്നില്ല ടോർഷൻ വിശകലനത്തിൽ ഷിയർ സ്ട്രെസ് ക്രോസ് സെക്ഷനിൽ ലീനിയർ ആയി വ്യത്യാസപ്പെടുന്നു ഇതിന്റെ ആത്യന്തിക നേട്ടം എന്താണ് ആദ്യം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്നെക്കുറിച്ചുള്ള പഠനം കാരണം അത് നമുക്ക് മനസിലാക്കാൻ കഴിഞ്ഞു മെറ്റീരിയൽ ഉപയോഗത്തിൽ ഒരു ട്രസ് എങ്ങനെ കാര്യക്ഷമമാണ് മുഴുവൻ ക്രോസ് സെക്ഷനും പങ്കെടുക്കുന്നതിനാൽ ഇത് ആക്സിയൽ ലോഡിനെ മാത്രമേ പിന്തുണയ്ക്കൂ എന്തുകൊണ്ടാണ് ഒരു പൊള്ളയായ ഷാഫ്റ്റ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു റെയിൽ വിഭാഗം ഒരു പ്രത്യേക രൂപം എടുക്കുന്നത് അതിനാൽ തീർച്ചയായും ഒന്നാം ലെവൽ കോഴ്സ് നമുക്ക് ഒരു നിശ്ചിത തലത്തിലുള്ള ധാരണ നൽകി പക്ഷേ അറിവ് പരിമിതമാണ് ഘടനകളെ രൂപകൽപ്പന ചെയ്യുന്നതിന് ഈ അറിവ് പ്രയോഗിക്കുന്നതിന് നമ്മൾ ലളിതമായ ഒരു ടെൻഷൻ പരിശോധനയിൽ ഏർപ്പെട്ടു സംയോജിത സ്ട്രെസ് കൈകാര്യം ചെയ്യുന്ന രീതി പ്രിൻസിപ്പൾ സ്ട്രെസ് ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് ടെൻഷൻ ഉണ്ട് നമുക്ക് ടോർഷൻ ഉണ്ട് ബെൻഡിങ് ഉണ്ട് എല്ലാം വിവിധ അനുപാതങ്ങളിൽ നിലനിൽക്കുന്നു എനിക്ക് ഇതിന്റെ ഒരു സംയോജനമുണ്ടെന്ന് കരുതുക നമ്മൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും യീൽഡ് സിദ്ധാന്തങ്ങളാണ് ഇത് ചെയ്യുന്നത് യീൽഡ് സിദ്ധാന്തങ്ങളിൽ നമ്മൾ എന്തുചെയ്യുന്നു പ്രിൻസിപ്പൾ സ്ട്രെസ് ആശയം നമുക്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് സംയോജിത സ്ട്രെസ്ൻറെ വിശകലനത്തെ വളരെയധികം ലളിതമാക്കി അതിനാൽ ഞാൻ വിഷമിക്കേണ്ടതില്ല ഞാൻ ടെൻഷൻ ടോർഷൻ ബെൻഡിങ് എന്നിവ വെവ്വേറെ പഠിക്കുന്നു പക്ഷേ അവയെല്ലാം ഒരു യഥാർത്ഥ ഘടനയിൽ വിവിധ അനുപാതങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ എനിക്ക് എല്ലായ്പ്പോഴും പ്രിൻസിപ്പൾ സ്ട്രെസ് കണ്ടെത്താനും യീൽഡ് സിദ്ധാന്തങ്ങൾ പ്രയോഗിക്കാനും കഴിയും കൂടാതെ യീൽഡ് സിദ്ധാന്തങ്ങൾ നോക്കുമ്പോൾ അവ ഒന്നാണോ നമുക്ക് ഇല്ലായിരുന്നു മെറ്റീരിയൽ ഏകതാനമാണെന്ന് നമ്മൾ അനുമാനിച്ചു ഇത് ഒരു ഇലാസ്റ്റിക് തുടർച്ചയാണെന്ന് നമ്മൾ അനുമാനിച്ചു അന്തർലീനമായ കുറവുകൾ നമ്മൾ പരിഗണിച്ചില്ല അത്തരം ലളിതവൽക്കരണങ്ങളോടെ സംയോജിത ലോഡിംഗിനൊപ്പം ഒരു ഘടന പോയി വിശകലനം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന ആശയം നമ്മൾ കണ്ടുപിടിച്ചു അത് ഗണ്യമായി ലഘൂകരിച്ചു പക്ഷേ വിശകലനം ചെയ്യാനും പ്രവചിക്കാനുമുള്ള ഒരു യീൽഡ് സിദ്ധാന്തം നമുക്കില്ല ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന് എന്ത് സംഭവിക്കും യീൽഡ് മാനദണ്ഡം നമുക്ക് വ്യത്യസ്ത യീൽഡ് മാനദണ്ഡമുണ്ടായിരുന്നു ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ വിഷയത്തോട് കൂടുതൽ സമാനമാണ് നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ സമവാക്യങ്ങൾ ഉള്ളതാണ് നല്ലത് അതിനാൽ നമുക്ക് മൂന്ന് പ്രിൻസിപ്പൾ സ്ട്രെസ്ലും ഉപയോഗിക്കുന്ന പ്രശസ്തമായ വോൺ മിസസ് മാനദണ്ഡമുണ്ട് അതിനാൽ ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 മുഴുവൻ സ്ക്വയർ പ്ലസ് സിഗ്മ 2 മൈനസ് സിഗ്മ 3 മുഴുവൻ സ്ക്വയർ പ്ലസ് സിഗ്മ 3 മൈനസ് സിഗ്മ 1 മുഴുവൻ സ്ക്വയറും ആണ് ഇത് യീൽഡ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി 2 സിഗ്മ ys സ്ക്വയറിനേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കണം ഇത് ഇതിലും കൂടുതലാണെങ്കിൽ യീൽഡ് സംഭവിക്കും ലളിതമായ ടെൻഷൻ പരിശോധനയിൽ നിന്നാണ് ഈ യീൽഡ് ലഭിച്ചത് യീൽഡ് മാനദണ്ഡത്തിന്റെ പ്രയോജനം എന്താണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് യീൽഡ്ന് കാരണമാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇത് വളരെ ലളിതമാക്കിയിരിക്കുന്നു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന വിഷയത്തിൽ നമ്മൾ നേടിയ അറിവ് എന്തായാലും ഘടനാപരമായ പ്രയോഗത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ യീൽഡ് ഒരു പരാജയമായി കണക്കാക്കപ്പെടുന്നു ഘടനാപരമായി രൂപഭേദം വരുത്താൻ ആളുകൾ ആഗ്രഹിച്ചില്ല കാരണം നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയലിൽ നിന്ന് ഒരു ഘടന നിർമ്മിക്കുമ്പോൾ ഒരു ടെൻഷൻ പരിശോധനയിൽ നിന്ന് ധാരാളം പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിച്ചതിനുശേഷം മെറ്റീരിയൽ വേർതിരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടു ഒരു രൂപകൽപ്പന കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ഫ്രാക്ചർ ആവശ്യമില്ല അതിനാൽ മെറ്റീരിയൽ യീൽഡ് ചെയ്യുമ്പോൾ പോലും നമുക്ക് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഘടന സുരക്ഷിതമാണ് ഘടന അങ്ങനെ പെരുമാറിയെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ യഥാർത്ഥ പ്രവർത്തന അവസ്ഥയിൽ ഘടന അങ്ങനെയല്ല പെരുമാറിയത് നമുക്ക് വോൺ മിസസ് മാനദണ്ഡമുണ്ടായിരുന്നു കൂടാതെ നമുക്ക് ട്രെസ്ക യീൽഡ് മാനദണ്ഡവും ഉണ്ടായിരുന്നു നമ്മൾ ട്രെസ്കയിലേക്ക് വരുന്ന സമയം ഇത് വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നു ഗണിതശാസ്ത്ര കണക്കുകൂട്ടൽ വളരെ ലളിതമാണ് എന്നാൽ അതിന്റെ ഉപയോഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം മാത്രം സിഗ്മ y s ന് തുല്യമോ കൂടുതലോ ആയിരിക്കുമെന്ന് അതിൽ പറയുന്നു അതിനാൽ ഞാൻ പ്രധാനമായും പരമാവധി ഷിയർ സ്ട്രെസ് കണ്ടെത്തുകയും അതിനെ ഒരു ടെൻഷൻ പരിശോധനയിൽ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു അതിനുള്ളിലാണെങ്കിൽ യീൽഡ് സംഭവിക്കുകയുമില്ല അതിനേക്കാൾ വലുതാണെങ്കിൽ യീൽഡ് സംഭവിക്കും ഞാൻ ഇത് പ്രയോഗിക്കുമ്പോൾ തിരിച്ചറിയുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം എന്താണ് സിഗ്മ മാക്സ് എന്താണ് സിഗ്മ മിനിമം ഇവിടെയാണ് നിരവധി വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്യുന്നത് എനിക്ക് രണ്ട് പ്രിൻസിപ്പൾ സ്ട്രെസ് ഉം പോസിറ്റീവ് ആണെന്ന് കരുതുക രണ്ട് പ്രിൻസിപ്പൾ സ്ട്രെസ് ഉം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ പ്രധാന സ്ട്രെസ് 0 ആകുന്നു ഇത് വളരെ പ്രധാനമാണ് അതിനാൽ സിഗ്മ മിനിമം അത് പോസിറ്റീവ് ആയിരിക്കുമ്പോഴും നെഗറ്റീവ് ആയിരിക്കുമ്പോഴും വ്യത്യസ്തമായി മാറും രണ്ട് പ്രിൻസിപ്പൾ സ്ട്രെസ് ഉം പോസിറ്റീവ് ആയിരിക്കുമ്പോൾ സിഗ്മ മിനിമം 0 ആയിരിക്കും രണ്ട് പ്രിൻസിപ്പൾ സ്ട്രെസ് ഉം നെഗറ്റീവ് ആയിരിക്കുമ്പോൾ സിഗ്മ മിനിമം മറ്റെന്തെങ്കിലും ആയിരിക്കും അതിനാൽ സീറോ സ്ട്രെസിന്റെ പങ്കിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം

ഇപ്പോൾ നമ്മൾ കണ്ടത് യീൽഡ് സിദ്ധാന്തങ്ങൾ ഒന്നല്ല മറിച്ച് പലതാണ് കാരണം ഭൌതിക സ്വഭാവം പിടിച്ചെടുക്കുന്നത് അത്ര ലളിതമല്ല ലളിതമായ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് ഞാൻ ബിരുദം നേടി എന്ന് കരുതുക ലളിതമായ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ തന്നെ എനിക്ക് ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അഡ്വാൻസ്ഡ് ഫ്രാക്ചർ മെക്കാനിക്സ് ചെയ്യുന്നുവെന്ന് നമുക്ക് വെറുതെ പറയാനാവില്ല അതിനാൽ ഫ്രാക്ചർ നിർവചിക്കുന്നതിന് എനിക്ക് ഒരു സിദ്ധാന്തം മാത്രമേ ഉണ്ടാകൂ ഇത് സാധ്യമല്ല ഫ്രാക്ചർ മെക്കാനിക്സിലെ ഒരു പ്രധാന കാര്യം നമ്മൾ കണ്ടെത്തും ഏത് വിധത്തിൽ വിള്ളൽ പ്രചരിപ്പിക്കും എന്നുള്ളത് ഏത് രീതിയിലാണ് വിള്ളൽ പ്രചരിപ്പിക്കുക എന്ന കണ്ടെത്തുന്നതിനു നിരവധി സിദ്ധാന്തങ്ങളുണ്ട് നമുക്ക് ഒരു സിദ്ധാന്തമില്ല എന്തുതന്നെയായാലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ മറ്റോ നമ്മൾ പഠിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത രീതികൾ സമാനമായ നടപടിക്രമങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സിലും നിലവിലുണ്ട് കാരണം അങ്ങനെയാണ് നമ്മൾ വിഷയം പഠിച്ചത് നമുക്ക് ഒരു ലളിതമായ ടെൻഷൻ പരിശോധന ഉണ്ടായിരുന്നു നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും ടെൻഷൻ പരിശോധന പര്യാപ്തമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ നമ്മൾ കുറച്ച് കൂടുതൽ പരിശോധനകൾക്ക് പോകേണ്ടതുണ്ട് പണ്ടുകാലങ്ങളിൽ ആളുകൾ എന്തുചെയ്തുവെന്ന് നമ്മൾ നോക്കാം നമുക്ക് ധാരാളം യീൽഡ് സിദ്ധാന്തങ്ങളുണ്ടെങ്കിലും ഈ യീൽഡ് സിദ്ധാന്തങ്ങളുടെ പ്രയോജനം എന്താണ് സംയോജിത ലോഡിംഗിനുപോലും ലളിതമായ ടെൻഷൻ പരിശോധനയിൽ ലഭിച്ച മെറ്റീരിയൽ സ്വഭാവം പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു എന്നതാണ് നേട്ടം നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ യീൽഡ് സിദ്ധാന്തങ്ങൾ പഠിച്ചുവെങ്കിൽ യഥാർത്ഥ പ്രവർത്തനത്തിൽ ഒരു ഘടന സുരക്ഷിതമായി തുടരുമോ എന്ന് നമ്മൾ കണ്ടെത്തണമെന്ന് കരുതുന്നുവെങ്കിൽ നമ്മൾ ഘടനയെടുത്ത് യഥാർത്ഥ പ്രവർത്തന ലോഡുകൾ പ്രയോഗിക്കുകയും തുടർന്ന് പരാജയം എങ്ങനെ സംഭവിക്കുമെന്ന് കണ്ടെത്തുകയും വേണം വാസ്തവത്തിൽ വിമാനത്തിനും ലോക്കോമോട്ടീവുകൾക്കും പാസഞ്ചർ കാറുകൾക്കുമായി ഇത് ചെയ്യുന്നു പക്ഷേ നമ്മൾ ഇത് ദൈനംദിന ചെറിയ ഘടകങ്ങൾ ചെയ്യാറില്ല അതിനാൽ ഡിസൈൻ രീതിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് പതിവ് ഘടകങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അല്ലാത്തപക്ഷം ചെലവ് വളരെയധികം വർദ്ധിക്കും കാരണം ഡിസൈനിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പ്രവർത്തന ലോഡുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് നിങ്ങളുടെ ഡിസൈൻ കണക്കുകൂട്ടലിൽ പ്രവർത്തന ലോഡിന്റെ എല്ലാ വശങ്ങളും നമ്മൾ മാതൃകയാക്കിയിരിക്കില്ല യഥാർത്ഥ ഘടനകളെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്താൻ ആളുകൾ പോകുന്നത് അതുകൊണ്ടാണ് പരമ്പരാഗത രൂപകൽപ്പന രീതിശാസ്ത്രത്തിൽ അവസാനമായി നോക്കിയാൽ യീൽഡ് ഒരു പരാജയമായി കണക്കാക്കപ്പെടുന്നു പ്രായോഗിക ഘടനകളിൽ ഇത് ഏതു വിധേനയും ഒഴിവാക്കണം യീൽഡ് എല്ലാ വിധേനയും ഒഴിവാക്കണം എന്ന് അവർ മനസ്സിലാക്കി നമുക്ക് നിരവധി യീൽഡ് സിദ്ധാന്തങ്ങളുണ്ട് അതിനാൽ ഇത് പരാജയ മോഡുകളിൽ ഒന്നായിരുന്നു പരാജയം എന്നതിൻറെ അർത്ഥം നമ്മൾ പരാജയം എന്ന് പറയുമ്പോൾ പരാജയം എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ കണക്കാക്കണം പരമ്പരാഗത രൂപകൽപ്പന രീതിശാസ്ത്രത്തിൽ പരാജയത്തിന്റെ ഒരു നിർവചനം ഘടനയുടെ ഏതെങ്കിലും ഭാഗത്ത് ഈ യീൽഡിങ് ലഭിക്കരുത് എന്നതാണ് ഇത് ശരിയാണ് ബക്ക്ലിംഗ് ഒരു പരാജയ മോഡായി മറ്റ് മാനദണ്ഡങ്ങൾ എന്താണ് മറ്റ് മാനദണ്ഡങ്ങൾ ആളുകൾ ബക്ക്ലിംഗ് ഒരു പരാജയ മോഡായി കണക്കാക്കുന്നു പിന്നെ നമ്മൾ എന്താണ് ബക്ക്ലിംഗിൽ പഠിച്ചത്

ആദ്യ ലെവൽ കോഴ്സിൽ നമ്മൾ കോളം ബക്ക്ലിംഗ് ചെയ്യുന്നു വിവിധ ക്ലാമ്പഡ് എൻഡ് അവസ്ഥയ്ക്കായി നമ്മൾ ഇത് നോക്കുന്നു കൂടാതെ ഒരു ക്ലാമ്പഡ് ഫ്രീ നിരയ്ക്കായി ബക്ക്ലിംഗ് എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ കാണും കൂടാതെ ഒരു നേരായ കോളം ലോഡ് ആവശ്യത്തിന് വർദ്ധിക്കുമ്പോൾ അത് ഒരു ബക്കിൾ ആകൃതി എടുത്തതായി നമ്മൾ കാണുന്നു കൂടാതെ ഇത് സ്ക്രീനിന്റെ പ്ലെയിനിൽ ബക്ക്ലിംഗ് സംഭവിച്ചതായി കാണുന്നു സ്ക്രീനിന്റെ പ്ലെയിനിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട് ഇത് ഇതുപോലുള്ള ചതുരാകൃതിയിലുള്ളതാണ് കൂടാതെ നമ്മൾക്ക് മോമൻറ് ഓഫ് ഇനേർഷ്യ എന്ന ആശയം ഉണ്ട് നമ്മൾ അത് കണ്ടെത്തുന്നു I മിനിമം I y y ആണ് ബക്ക്ലിംഗ് ഒരു തരത്തിൽ സംഭവിച്ചുവെന്ന് ഞാൻ തെളിയിച്ചു

ഞാൻ വീണ്ടും ലോഡ് പ്രയോഗിക്കുന്നുവെന്ന് കരുതുക അത് അതേ രീതിയിൽ സംഭവിക്കുമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പരീക്ഷണം ആവർത്തിക്കുകയാണെങ്കിൽ അത് അതേ രീതിയിൽ സംഭവിക്കുമോ ഇത് അങ്ങനെയല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണും കൂടാതെ ഇത് മറ്റൊരു വിധത്തിൽ ബക്ക്ലിംഗ് ചെയ്തതായി നമ്മൾ കാണുന്നു ഈ പ്ലെയിനിൽ ബക്ക്ലിംഗ് സംഭവിക്കാം അത് രണ്ട് തരത്തിലും ആവാം ഇത് എന്തിനാൽ നിർണ്ണയിക്കപ്പെടുന്നു ഇത് പ്രാരംഭ വ്യവസ്ഥകളാൽ നിർണ്ണയിക്കപ്പെടുന്നു ഘടനയിൽ അടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള അപൂർണ്ണത എന്താണ് ഈ അപൂർണതകൾ ഒരിക്കലും മാതൃകയാക്കപ്പെടുന്നില്ല അവ മാതൃകയാക്കാൻ വളരെ പ്രയാസമാണ് നമ്മൾ ഇതുവരെ കോളം ബക്കിളിംഗിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ നമ്മൾ ഈ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കംപ്രസ്സീവ് ലോഡുകൾക്ക് വിധേയമായ നേർത്ത ഘടനകൾക്ക് ബക്ക്ലിംഗ് ഒരു പ്രധാന പ്രശ്നമായി മാറുന്നു അതിനാൽ കോളം മാത്രമേ ബക്ക്ലിംഗ് നടക്കൂ എന്ന് നമ്മൾ കരുതരുത് കാരണം അത് അപകടമാണ് ആദ്യ ലെവൽ കോഴ്സിൽ നമ്മൾ കോളം വിശകലനം ചെയ്യുന്നതിന് മാത്രം ഗണിതശാസ്ത്രം വികസിപ്പിച്ചെടുത്തു കോഴ്സ് അവസാനിക്കുമ്പോഴേക്കും ഇത് അവതരിപ്പിക്കാൻ മാത്രം സമയം ഉണ്ടാവും അതിനാൽ കോളം മാത്രം ബക്ക്ലിംഗ് നടക്കൂ എന്ന മാനസിക ചിത്രവുമായി നമ്മൾ പോകരുത് കംപ്രസ്സീവ് ലോഡുകൾക്ക് വിധേയമാകുന്ന ഏത് നേർത്ത ഘടനയും നമ്മൾ സാമാന്യവൽക്കരിച്ചു കംപ്രസ്സീവ് ലോഡുകൾ എവിടെ നിന്ന് വരുന്നു കംപ്രസ്സീവ് ലോഡുകൾ ബാഹ്യ ലോഡുകളിൽ നിന്ന് വരാം അതായത് ഒരു കോളം ബക്കിളിംഗിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ലോക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ മൂലമോ ബെൻഡിങ് ടോർഷൻ എന്നിവ പോലെ അല്ലെങ്കിൽ ശുദ്ധമായ ഷിയർ എന്നിവയിൽ കാണപ്പെടുന്നു ഈ സന്ദർഭങ്ങളിൽ ഓരോന്നിനും നമുക്ക് ഒരു ഉദാഹരണം നോക്കാം നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് ബീം വളയുന്നു ഒപ്പം തിരിയുന്നു വളയുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷൻ വശവും ഒരു കംപ്രഷൻ വശമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം നമുക്ക് ഒരു നേർത്ത വെബ് ഉണ്ടെങ്കിൽ അതും ബക്കിളിംഗ് ചെയ്യാനാകും അതിനാൽ വളയുന്നതിലൂടെ ബക്ക്ലിംഗ് വേഗത്തിലാക്കാം മൂന്നാമത്തെ ഉദാഹരണം കാണിക്കുന്നത് ബക്കിംഗ് ഷിയർ കൊണ്ടും വേഗത്തിൽ ആകാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് ശുദ്ധമായ ഒരു ഷിയർ അവസ്ഥ ടെൻഷന്റെയും കംപ്രഷന്റെയും സംയോജനമായി കണക്കാക്കാം അതിനാൽ കംപ്രസ്സീവ് ലോഡിന് വിധേയമായ ഏതെങ്കിലും നേർത്ത ഘടനയ്ക്ക് ബക്കിളിംഗ് ചെയ്യാനാകും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നേർത്ത ഘടനയ്ക്കായി പോകുന്നത് ഇപ്പോൾ നമ്മൾ ബഹിരാകാശ യുഗത്തിലാണ് ജീവിക്കുന്നത് ബഹിരാകാശത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന ഘടനകൾ ഉണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു കിലോഗ്രാം ഭാരം കുറച്ചാലും നമ്മൾ വളരെയധികം ഇന്ധനം ലാഭിക്കുന്നു കൂടാതെ നമ്മൾ ഒപ്റ്റിമൈസേഷനെക്കുറിച്ച് സംസാരിക്കുന്നു അധിക മെറ്റീരിയൽ നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് എവിടെ വെച്ചാലും അനാവശ്യമാണ് മെറ്റീരിയൽ ലാഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ പ്രക്രിയകളെല്ലാം അനുസരിച്ച് നമ്മൾ നേർത്ത ഘടനകളിലേക്ക് പോകുന്നു അതിനാൽ ബഹിരാകാശ സാങ്കേതികവിദ്യയിലെ ഏറ്റവും വലിയ പ്രശ്നം യഥാർത്ഥത്തിൽ ബക്ക്ലിംഗ് ആണ് ഭാരം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത നേർത്ത കനംകുറഞ്ഞ ഭാഗങ്ങളിലേക്ക് നയിക്കുന്നു ഇത് ബക്ക്ലിംഗിന് കാരണമാകുന്നു അതിനാൽ നമ്മൾ വലിയ വീക്ഷണകോണിൽ ഘടനയെ ശരിക്കും നോക്കുമ്പോൾ എന്താണ് പരാജയം എന്ന നിർവചിക്കപ്പെടണ്ടതുണ്ട് ആ പരാജയം പരിഹരിക്കപ്പെടണം അതിനാൽ എല്ലായ്പ്പോഴും ഭൌതിക വിഭജനമുണ്ടെന്ന് കരുതരുത് മെറ്റീരിയൽ വേർതിരിക്കൽ ഒരു വശമാണ് ബക്ക്ലിംഗ് ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രശ്നമായിരിക്കാം നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ഡിസൈൻ സാഹചര്യങ്ങൾക്കായി നമ്മൾ നേരിടേണ്ടിവരാം

ഫാറ്റിഗ്റ് പരിശോധനയുടെ ആവശ്യകത ശേഖരിക്കുന്ന ഡാറ്റയുടെസൂക്ഷ്മപരിശോധന പരാജയം എന്താണ് എന്ന് നിർവചിക്കേണ്ടതുണ്ട് ഒരു ഫസ്റ്റ് ലെവൽ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ് യീൽഡിങ് ഒഴിവാക്കണമെന്ന് നമ്മൾ പഠിക്കും കൂടാതെ ബക്ക്ലിംഗ് ഒഴിവാക്കണമെന്നും നമ്മൾ പഠിക്കും ലോക്കോമോട്ടീവുകളുടെ വികാസത്തോടെ ആവർത്തിച്ചുള്ള ലോഡിംഗിന് കീഴിൽ ഘടനാപരമായ പെരുമാറ്റം മനസിലാക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്കറിയാം നിങ്ങൾ ആശ്ചര്യപ്പെടും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ട്രെയിനുകൾ അവതരിപ്പിച്ചപ്പോൾ അവ മണിക്കൂറിൽ 15 മൈൽ വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു "ന്യൂയോർക്ക്" എന്ന പത്രം റിപ്പോർട്ടുചെയ്തു അത് വളരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ശല്യപ്പെടുത്തും ഇപ്പോൾ നമുക്ക് മണിക്കൂറിൽ 350 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ ഉണ്ട് അതിനാൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി നമ്മൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു പ്രധാനമായും നമ്മൾ മെറ്റീരിയലിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിനാലാണ് ആവർത്തിച്ചുള്ള ലോഡിംഗ് മനസിലാക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു ടെൻഷൻ പരിശോധനയിൽ നമ്മൾ എന്തുചെയ്യുന്നു നമ്മൾ ഒരു മാതൃക എടുത്ത് വലിക്കുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ടെൻഷൻ പരിശോധനയുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ വലിക്കുക ആണ് ചെയ്യുന്നത് നമ്മൾ ഒരു മോണോടോണിക് വർദ്ധനവ് മാത്രമാണ് പ്രയോഗിക്കുന്നത് നമ്മൾ ആവർത്തിച്ചുള്ള ലോഡിംഗ് പ്രയോഗിക്കുന്നില്ല ഇപ്പോൾ ഒരു ഫാറ്റിഗ് പരിശോധനയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ പരീക്ഷണ ഉപകരണത്തിന്റെ ഒരു രേഖാചിത്രം വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഏത് രീതിയിലാണ് ഫാറ്റിഗ് പരിശോധന നടത്തുന്നത് ഏത് തരം ഡാറ്റ റെക്കോർഡുചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അറിയണം ഇത് പരീക്ഷണ വിഭാഗമാണെന്നും ഇതിനെ നാല് പോയിന്റുകൾ പിന്തുണയ്ക്കുന്നുവെന്നും നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് നമുക്ക് ഒരു മോട്ടോർ ഉണ്ട് അത് മാതൃകയെ തിരിക്കുന്നു നമുക്ക് ഇതിലേക്ക് ഒരു ലോഡ് പ്രയോഗിക്കാം അതിനാൽ ബെൻഡിങ് മോമൻറ് ഡയഗ്രാമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഭാഗം സ്ഥിരമായി ബെൻഡിങ് മോമൻറ്ൽ ആണ് നമുക്ക് ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട് അത് സൈക്കിളുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നു കൂടാതെ നമ്മൾ ചെയ്യുന്നത് മാതൃക പരാജയപ്പെടുമ്പോൾ ഭാരം കുറയുകയും കോൺടാക്റ്റ് തകരുകയും ചെയ്യുന്നു ഇത് മോട്ടോർ ഓഫ് ചെയ്യുന്നു അതിനാൽ നമ്മൾ എന്തുചെയ്യുന്നു ലോക്കോമോട്ടീവുകളുടെ യഥാർത്ഥ പ്രവർത്തന പരാജയങ്ങൾ നോക്കുമ്പോൾ ആവർത്തിച്ചുള്ള ലോഡിംഗ് പ്രധാനമാണ് ആവർത്തിച്ചുള്ള ലോഡിംഗ് പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ നിമിഷം ഇത് ഒരു ലബോറട്ടറി അവസ്ഥയിൽ അനുകരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ലബോറട്ടറി അവസ്ഥയിൽ നമ്മൾ ഒരു പുതിയ ടെസ്റ്റ് രൂപകൽപ്പന ചെയ്യണം ഈ ടെസ്റ്റ് റെക്കോർഡുകൾ ഒരു വിവരം മാത്രം തന്നിരിക്കുന്ന ലോഡിംഗിനായി എത്ര സൈക്കിളുകൾക്ക് ശേഷം മാതൃക പരാജയപ്പെടുന്നു ഇതിനപ്പുറം നമ്മൾ ഒന്നും റെക്കോർഡുചെയ്യുന്നില്ല അതാണ് വളരെ പ്രധാനം ഈ മാതൃക നാല് പോയിന്റ് ബെൻഡിങ്ന് വിധേയമാണ് ഭ്രമണം കണക്കിലെടുക്കുമ്പോൾ ടെൻഷനിലും കംപ്രഷനിലും തുല്യ അളവിലുള്ള സ്ട്രെസ് നിലകളുടെ സിനുസോയ്ഡൽ വ്യതിയാനം ഈ മാതൃക അനുഭവിക്കുന്നു

അതിനാൽ നമുക്ക് ഒരു സിനുസോയ്ഡൽ വ്യത്യാസമുണ്ട് നമ്മൾ എന്താണ് റെക്കോർഡുചെയ്യുന്നത് മാതൃക പരാജയപ്പെടുമ്പോൾ എത്ര സൈക്കിളുകൾ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു നമ്മൾ മറ്റ് വിവരങ്ങളൊന്നും റെക്കോർഡുചെയ്യുന്നില്ല ഈ കോഴ്സിനായി എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള എന്റെ ഇ ബുക്ക് ഞാൻ ഉപയോഗിക്കും ഐഐടി മദ്രാസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഏകദേശം 60 മണിക്കൂർ അധ്യാപനത്തിനും പഠനത്തിനും ഇത് ഉപയോഗിക്കുന്നു ജീവിതത്തിലുടനീളം ഒരു പഠിതാവായിരുന്ന എന്റെ പിതാവിനായി ഇത് സമർപ്പിക്കുന്നു കൂടാതെ നമ്മൾ ഒരു അധ്യാപകനാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ഒരു പഠിതാവായിരിക്കണം അത് വളരെ പ്രധാനമാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കോഴ്സ് എന്താണെന്നതിന്റെ ഒരു ഹ്രസ്വ രൂപരേഖയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അതിനാൽ ഏത് തരത്തിലുള്ള അധ്യായങ്ങളാണ് നമ്മൾ നോക്കിയത് നമുക്ക് നോക്കാം കൂടാതെ നമ്മൾ ചില പദപ്രയോഗങ്ങളും പഠിച്ചു ആ പദപ്രയോഗങ്ങൾ നമുക്കറിയാം നമുക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവില്ല പക്ഷേ കോഴ്സിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ ആ ആശയങ്ങളുടെ വികാസത്തിന് പിന്നിലെ ഗണിതശാസ്ത്രവും ഭൌതികശാസ്ത്രവും നമ്മൾ വികസിപ്പിക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്നെക്കുറിച്ചുള്ള ലളിതമായ ഒരു കോഴ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ നമ്മൾ തുടങ്ങി നമ്മൾ നേടിയ അറിവ് വളരെ പ്രധാനമാണ് പക്ഷേ നമ്മൾ നേടിയ അറിവ് പരിമിതമാണ് ആ വിനയം ആവശ്യമാണ് നമ്മൾ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കോഴ്സിൽ നേടിയ അറിവുകൾ വളരെ ഉപയോഗപ്രദമാണ് അതില്ലാതെഎന്തുകൊണ്ടാണ് ഒരു ബീം ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് ഒരു ടോർഷൻ അംഗം ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ട് ഈ ഘടനകളിൽ ചിലത് നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും എന്തുകൊണ്ടാണ് നമ്മൾ പൊള്ളയായ ഷാഫ്റ്റുകൾക്കായി പോകുന്നത് എന്നൊന്നും മനസ്സിലാക്കാനാവില്ല നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ പ്രകൃതി ഇതെല്ലാം മനസ്സിലാക്കുന്നു ശാസ്ത്രജ്ഞരെന്ന നിലയിൽ നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷികൾക്ക് പൊള്ളയായ അസ്ഥികളുണ്ടെന്ന് നമ്മൾ കാണുന്നു നമുക്ക് പൊള്ളയായ അസ്ഥികളുണ്ട് മധ്യഭാഗത്ത് നമുക്ക് ഈ ഹീമോഗ്ലോബിൻ സൃഷ്ടിക്കപ്പെടുന്നു ഇത് വളരെ മൃദുവാണ് യഥാർത്ഥത്തിൽ നമ്മൾ പടികളിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ തുടയുടെ അസ്ഥി ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി ഞരമ്പിന്റെ അസ്ഥി ബെൻഡിങ്നും അതുപോലെ ടോർഷനും വിധേയമാണ് ഇത് പൊള്ളയായ ഘടനയാണ് അതിനാൽ പ്രകൃതി വളരെ മനോഹരമായി ഈ ആശയങ്ങൾ ചിലത് മനസ്സിലാക്കി കുറച്ചുകൂടി ശാസ്ത്രം മനസിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ പല്ലായി കാണുന്നതെന്തും തുടക്കത്തിൽ പൊട്ടുന്ന വസ്തുക്കളായി നമ്മൾ വർഗ്ഗീകരിച്ചു പക്ഷേ കൂടുതൽ കൂടുതൽ ആളുകൾ നടത്തിയ ഗവേഷണങ്ങൾ ഇത് പ്രവർത്തനപരമായി ഗ്രേഡുചെയ്ത മെറ്റീരിയലാണെന്ന് കണ്ടെത്തി വാസ്തവത്തിൽ ഘടനാപരമായ ആപ്ലിക്കേഷനിലെ കമ്പോസിറ്റുകളുടെ വികസനം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ദിശകളിൽ നമുക്ക് കൂടുതൽ ശക്തി ആവശ്യമാണ് എന്ന് മനുഷ്യർ തീരുമാനിച്ചു അതിനാൽ എന്തുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക ദിശയിൽ ഉയർന്ന ശക്തി കാണിക്കുന്ന ഒരു നിഗൂഢമായ മെറ്റീരിയൽ വികസിപ്പിച്ചു കൂടാ ഇതിൽ നിന്നുള്ള ബിരുദാനന്തരം പ്രവർത്തനപരമായി ഗ്രേഡുചെയ്ത മെറ്റീരിയൽ വികസിപ്പിക്കുന്നതിനായി ആളുകൾ കടന്നുപോയി വിശകലനത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ഗണിതശാസ്ത്രപരമായി ഇത് വെല്ലുവിളി നിറഞ്ഞതാണ് ഇതെല്ലാം മനസിലാക്കിയ ശേഷം നമ്മൾ തിരിച്ചുവന്ന് പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക പ്രകൃതി ഇത് ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് ഗണിത ശാസ്ത്രം പഠിക്കാതെ പരോക്ഷമായി ഫ്രാക്ചർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഈ കോഴ്സിൽ കാണാം അത്തരം ഉദാഹരണങ്ങളിൽ ചിലത് നമ്മൾ കാണും അടുത്ത ക്ലാസിൽ നമുക്ക് കാണാം